കണക്റ്റുചെയ്ത ഡൊമെയ്നുകൾ ലളിതമായി കണക്റ്റുചെയ്ത് ഗുണിക്കുക ഇനി ഇലാസ്തികതയുടെ സിദ്ധാന്തത്തിന്റെ അവലോകനം നോക്കാം ഇലാസ്തികത സിദ്ധാന്തവും വസ്തുക്കളുടെ ശക്തിയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണ് ഇലാസ്തികത സിദ്ധാന്തത്തിൽ സ്ഥാനചലനം സംബന്ധിച്ച് മുൻകൂട്ടി അനുമാനിക്കപ്പെടുന്നില്ല മെറ്റീരിയലുകളുടെ ശക്തിയിൽ നമ്മൾ എന്താണ് ചെയ്തത് ലോഡ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും തലം വിഭാഗങ്ങൾ തലമായി തുടരുമെന്ന് നമ്മൾ ചുമത്തി അത്തരത്തിലുള്ള ഒരു അനുമാനത്തോടെ ഒരു തരം മെലിഞ്ഞ അംഗങ്ങൾക്ക് നമുക്ക് സമ്മർദ്ദ മേഖലകളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു വാസ്തവത്തിൽ ഞാൻ ഇതുപോലുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്ക് എടുക്കുകയാണെങ്കിൽ മെറ്റീരിയൽ സമീപനത്തിന്റെ ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് പരിഹരിക്കാൻ കഴിയില്ല വാസ്തവത്തിൽ നിങ്ങൾ ഇലാസ്തികതയുടെ സിദ്ധാന്തത്തിലേക്ക് പോകേണ്ടതുണ്ട് കാരണം ഇതിൽ വൃത്താകാരമായ അമർത്തലുകൾ കാരണം ലോഡ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും തലം വിഭാഗങ്ങൾ തലമായി നിലനിൽക്കില്ല അതിനാൽ നിങ്ങൾ ഇലാസ്തികതയുടെ സിദ്ധാന്തത്തിലേക്ക് പോകേണ്ടതുണ്ട് ഭാഗ്യവശാൽ ഇലാസ്തികത സിദ്ധാന്തത്തിൽ നിന്ന് ഒരു അടച്ച ഫോം എക്സ്പ്രഷൻ കണ്ടെത്താൻ നമുക്ക് കഴിയും അതായത് നിങ്ങൾ x y വ്യക്തമാക്കുകയാണെങ്കിൽ ലോഡ് ആപ്ലിക്കേഷൻ പോയിന്റുകൾ ഒഴികെ ഡൊമെയ്നിലെ എല്ലാ പോയിന്റുകൾക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മൂല്യം ലഭിക്കും നിങ്ങൾ ഇലാസ്തികത സിദ്ധാന്തത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ തിരിച്ചറിയുകയും വേണം നിങ്ങൾ വസ്തുക്കളെ കേവലം ബന്ധിപ്പിച്ച് ഗുണിതമായി ബന്ധിപ്പിക്കും ഇത് കേവലം ബന്ധിപ്പിച്ച വസ്തുക്കളാണ് പൊതുവേ നിങ്ങൾ സ്ഥലംമാറ്റം ചുമത്തുന്നില്ലെങ്കിലും നിങ്ങളുടെ പരിഹാര സമീപനത്തിന്റെ ഭാഗമായി സ്ഥലംമാറ്റത്തെക്കുറിച്ചുള്ള പരീക്ഷണാത്മക വിവരങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം വാസ്തവത്തിൽ ചതുരാകൃതിയിലുള്ള ക്രോസ് സെക്ഷന്റെ ടോർഷന്റെ കാര്യത്തിൽ ഇത് അഭ്യർത്ഥിക്കുന്നു എനിക്ക് ഇവിടെ വന്ന് ഒരു മാതൃക എടുത്ത് അത് വളച്ചൊടിക്കാൻ ഒരു സന്നദ്ധപ്രവർത്തകൻ ആവശ്യമാണ് ഇത് ചതുരാകൃതിയിലുള്ള ഷാഫ്റ്റാണ് ഇത് വളച്ചൊടിക്കുകയാണ് നിങ്ങൾക്ക് വരകൾ വരച്ചിട്ടുണ്ട് ഇത് വളച്ചൊടിച്ച ശേഷം ഈ വരകൾ വളഞ്ഞതായി കാണാം വാസ്തവത്തിൽ ഷാഫ്റ്റിന്റെ അക്ഷത്തിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ട് നിങ്ങൾ അത് z അക്ഷമായി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട് നിങ്ങൾ വളരെ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ z വ്യത്യാസപ്പെടുമ്പോൾ ഈ വരകൾ സമാനമാണ് അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വളഞ്ഞുപിരിഞ്ഞ അവസ്ഥ ആണ് ഈ വളഞ്ഞുപിരിഞ്ഞ അവസ്ഥ ക്രോസ് സെക്ഷന്റെ മാത്രം പ്രവർത്തനമാണെന്ന് നിങ്ങൾ പറയുന്നു ക്രോസ് സെക്ഷണൽ തലം എന്തുതന്നെയായാലും അത് z ന്റെ എല്ലാ വിഭാഗത്തിനും തുല്യമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അടിസ്ഥാനമായി നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നു വാസ്തവത്തിൽ മോഡ് III ന്റെ കാര്യത്തിൽ സ്ട്രെസ് ഫീൽഡിന്റെ പരിഹാരം നോക്കുമ്പോൾ നമ്മൾ ഈ സ്ഥാനചലന രൂപീകരണത്തിലൂടെ കടന്നുപോകും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ച് സമ്മർദ്ദമേഖലയെ വിലയിരുത്തും കണക്റ്റുചെയ്ത ദേഹങ്ങൾ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ സ്ഥാനചലനത്തിന്റെ പ്രത്യേകത നിങ്ങൾ അഭ്യർത്ഥിക്കണം കണക്റ്റുചെയ്ത ബോഡികൾ എന്തൊക്കെയാണ് ഞാൻ ഇതുപോലൊരു മോതിരം എടുക്കുന്നുവെന്ന് കരുതുക നിങ്ങൾക്ക് ഉള്ളത് എനിക്ക് ഇടയിൽ ഇവിടെ ഒരു ദ്വാരമുണ്ട് വാസ്തവത്തിൽ നിങ്ങൾ ഇത് ഒരു ലാമിന്റെ പ്രശ്നമായി പരിഹരിച്ചു നിങ്ങൾക്ക് ആന്തരിക സമ്മർദ്ദമുണ്ട് ഇത് കട്ടിയുള്ള സിലിണ്ടറാണ് അതിനാൽ ആന്തരിക സമ്മർദ്ദം കാരണം വികസിപ്പിച്ച സമ്മർദ്ദങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും വാസ്തവത്തിൽ നിങ്ങൾ പോയി പരിഹാരം പരിഹരിച്ച വഴി നോക്കുകയാണെങ്കിൽ പൂജ്യത്തിലേക്ക് പോകുന്നതിന് പ്രശ്നം നിർവചിക്കുന്ന ഗുണകങ്ങളിലൊന്ന് നിങ്ങൾ ആക്കുമായിരുന്നു പ്രധാനമായും ഞാൻ ഈ സമ്പൂർണ്ണ സർക്കിളിലൂടെ ഒരിക്കൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്രോസ് സെക്ഷനിൽ ഉണ്ടായിരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ഥലംമാറ്റം അതേപടി തുടരും സ്ട്രെസ് ഫംഗ്ഷന്റെ ഗുണകങ്ങളിലൊന്ന് പൂജ്യത്തിലേക്ക് പോകാൻ നിങ്ങൾ സഹായിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് അതിനാൽ ഇതുപോലുള്ള ഒരു ബഹുലീകരിച്ച് കണക്റ്റുചെയ്ത ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ സ്ഥാനചലനത്തിന്റെ പ്രത്യേകത കൊണ്ടുവരണം ഒബ്ജക്റ്റ് കേവലം കണക്റ്റുചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ബഹുലീകരിച്ച് കണക്റ്റുചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും ഇപ്പോൾ എനിക്ക് ഒരു മോതിരം ഉണ്ടെന്ന് ഞാൻ പറയുന്നു ഇത് ഗുണിതമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു നിങ്ങൾ ഒരു കോണ്ടൂർ എടുക്കുക എന്നതാണ് പരിശോധന ഞാൻ ഇതുപോലുള്ള ഏകപക്ഷീയമായ ഒരു കോണ്ടൂർ എടുക്കുന്നുവെന്ന് കരുതുക ഒരു ഡിസ്കിന്റെ കാര്യത്തിൽ ഒരു അതിർത്തി നേരിടാതെ എനിക്ക് ആ കോണ്ടൂർ 0 ആയി ചുരുക്കാൻ കഴിയും ഏത് തരത്തിലുള്ള അനിയന്ത്രിതമായ കോണ്ടൂറാണ് ഞാൻ ഇത് ഏറ്റെടുക്കുന്നത് ഒരു അതിർത്തി കടക്കാതെ എനിക്ക് എല്ലായ്പ്പോഴും ആ കോണ്ടൂർ 0 ആയി ചുരുക്കാൻ കഴിയും മറുവശത്ത് ഞാൻ ഇതുപോലുള്ള ഒരു മോതിരം എടുക്കുമ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു കോണ്ടൂർ എടുക്കുന്നുവെന്ന് കരുതുക ഞാൻ അതിനെ പൂജ്യമായി ചുരുക്കുമ്പോൾ ഈ അതിർത്തി കടക്കേണ്ടതുണ്ട് ഞാൻ ഇത് തിരശ്ചീനമായി മുറിച്ചുവെന്ന് കരുതുക എനിക്ക് ഇതുപോലുള്ള ഒരു മാതൃക മാത്രമേയുള്ളൂ ഇത് ഇതുപോലെയാണ് ഒരു C മാതൃക പോലെ എനിക്ക് ഇതുപോലുള്ള ഒരു വൃത്താകൃതിയിലുള്ള കോണ്ടൂർ എടുക്കാൻ കഴിയില്ല എനിക്ക് വ്യത്യസ്ത തരം കോണ്ടൂർ എടുക്കേണ്ടി വരും അതിനാൽ പരീക്ഷണങ്ങളിലൊന്ന് എനിക്ക് അനിയന്ത്രിതമായ ഒരു കോണ്ടൂർ എടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അത് പൂജ്യമായി ചുരുക്കുകയാണെങ്കിൽ ഞാൻ പ്രദേശത്തിന് പുറത്ത് പോകുന്നില്ലെങ്കിൽ ആ പ്രശ്നം കേവലം ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഡൊമെയ്ൻ ഗുണിതമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ലളിതമായ ഒരു പെരുവിരൽ നിയമം എനിക്ക് ഇതുപോലുള്ള രൂപപെടുത്തലുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലുള്ള നിരവധി രൂപപെടുത്തലുകൾ ഉണ്ട് ഇത് പലവിധത്തിൽ കണക്റ്റുചെയ്ത ഒബ്ജക്റ്റാണ് എനിക്ക് ഇതുപോലുള്ള മറ്റൊരു മാതൃകയുണ്ട് ഇത് വളരെ രസകരമായ ഒരു മാതൃകയാണ് ഇത് തീറ്റ എന്ന ഗ്രീക്ക് അക്ഷരം പോലെ ദൃശ്യമാകുന്നതിനാൽ ഇതിനെ തീറ്റ മാതൃക എന്ന് വിളിക്കുന്നു നിങ്ങൾ കംപ്രഷൻ പ്രയോഗിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് തിരശ്ചീന വെബിലാണ് അത് ഏകീകൃത പിരിമുറുക്കം അനുഭവിക്കുന്നു മൊയ്റോയുടെ ചില വശങ്ങൾ പരിശോധിക്കുന്നതിനായി പ്രൊഫസർ ഡ്യുറെല്ലി ഇത് വികസിപ്പിച്ചെടുത്തു ഇത് പലമടങ്ങായി കണക്റ്റുചെയ്ത വസ്തുവാണ് അതിനാൽ കണക്റ്റുചെയ്ത ഒബ്ജക്റ്റുകളിൽ ഇലാസ്തികത സിദ്ധാന്തത്തിൽ നിങ്ങൾ സ്ഥാനചലനത്തിന്റെ പ്രത്യേകത ആവശ്യപ്പെടണം ഒരു പൊതുവായ നിർദ്ദേശം സ്ഥാനചലനം സംബന്ധിച്ച് മുൻകൂട്ടി അനുമാനിക്കപ്പെടുന്നില്ല അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് അതിർത്തി വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്ന ഭരണപരമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് സ്ഥാനചലനം സമ്മർദ്ദ മണ്ഡലം വിലയിരുത്താൻ ഒരാൾ ശ്രമിക്കുന്നു അതിനാൽ അടിസ്ഥാന മാറ്റം നിങ്ങൾ ഇലാസ്തികത സിദ്ധാന്തത്തിൽ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഹരിക്കുന്നു എന്നതാണ് എന്നാൽ ആ പരിഹാര നടപടിക്രമം പോലും നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പുതിയതും ലളിതവുമായ രീതികൾ വികസിപ്പിച്ചെടുക്കുന്നു നിങ്ങൾ ഒരിക്കലും പോയി സങ്കീർണ്ണമായ ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു ലളിതമായ നടപടിക്രമമുണ്ട് നമുക്ക് അത് പരിശോധിക്കാം സ്ഥലംമാറ്റവും സമ്മർദ്ദ സൂത്രവാക്യങ്ങളും സാധാരണയായി രണ്ട് ഫോർമുലേഷനുകൾ രൂപവൽക്കരണം സ്വീകരിക്കുന്നു നിങ്ങൾക്ക് ഒരു സ്ഥാനചലന രൂപീകരണം ഉണ്ട് ഇതിൽ നിങ്ങൾ ആദ്യം സ്ഥലംമാറ്റങ്ങൾ കണ്ടെത്തും ഡിസ്പ്ലേസ്മെന്റുകളിൽ സ്ഥലംമാറ്റങ്ങൾ നിന്ന് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് സമവാക്യങ്ങൾ അഭ്യർത്ഥിച്ച് നിങ്ങൾ ബുദ്ധിമുട്ട് നിർണ്ണയിക്കുന്നതിലേക്ക് നീങ്ങുന്നു ഒടുവിൽ സ്ട്രെസ് സ്ട്രെയിൻ അവസ്ഥകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഘടകങ്ങൾ ലഭിക്കും സ്ട്രെസ് ഫോർമുലേഷനാണ് മറ്റൊരു ഫോർമുലേഷൻ വാസ്തവത്തിൽ വിശകലന വികസനത്തിന് ഇത് കൂടുതൽ ജനപ്രിയമാണ് അതിനാൽ ഇതിൽ നിങ്ങൾ ആദ്യം സമ്മർദ്ദങ്ങൾ കണ്ടെത്തുന്നു സമ്മർദ്ദങ്ങളിൽ നിന്ന് നിങ്ങൾ ബുദ്ധിമുട്ട് സ്ട്രെയിൻ ഘടകങ്ങൾ കണ്ടെത്തുന്നു സ്ട്രെയിൻ ഘടകങ്ങൾക്കായി നിങ്ങൾ സ്ട്രെയിൻ സ്ട്രെസ് ബന്ധങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങൾ ബുദ്ധിമുട്ട് സ്ഥലംമാറ്റം കണ്ടെത്തുന്നു നിങ്ങൾ സ്ഥാനചലന സമ്മർദ്ദ വ്യവസ്ഥകൾ അഭ്യർത്ഥിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഒരു പിടുത്തം ഉണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സമ്മർദ്ദ ഘടകങ്ങൾ ആറ് സ്ഥാനചലന ഘടകങ്ങൾ മൂന്ന് അതിനാൽ പൊരുത്തക്കേടുകളിൽ നിന്ന് സ്ഥലംമാറ്റം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അനുയോജ്യ വ്യവസ്ഥകൾ കൊണ്ടുവന്നില്ലെങ്കിൽ സ്ഥലംമാറ്റം ശരിയാകില്ല അതിനാൽ സ്ട്രെസ് ഫോർമുലേഷനിൽ നിങ്ങൾ എല്ലായ്പ്പോഴും അനുയോജ്യ വ്യവസ്ഥകൾ നോക്കേണ്ടതുണ്ട് അവ പരിഹാര നടപടിക്രമവുമായി പോകുന്നു ഈ ഓരോ ഫോർമുലേഷനുകളും നമ്മൾ പരിശോധിക്കും നിങ്ങൾക്ക് ഏതുതരം നിയന്ത്രിക്കുന്ന സമവാക്യങ്ങളുണ്ട് നമ്മൾ ആദ്യം ഇത് വികസിപ്പിക്കും ത്രിമാന രംഗം തുടർന്ന് പ്ലാനർ പ്രശ്നങ്ങൾക്കായി ഇത് ലളിതമാക്കുക അതിനാൽ സ്ഥാനചലന രൂപീകരണത്തിന്റെ കാര്യത്തിൽ സന്തുലിതാവസ്ഥയുടെ സമ്മർദ്ദ സമവാക്യങ്ങൾ സമ്മർദ്ദ സ്ഥാനചലനവുമായി സംയോജിപ്പിച്ച് നിങ്ങൾക്ക് ഭരണ സമവാക്യങ്ങൾ ലഭിക്കും അതിനാൽ ഇത് നിങ്ങൾക്ക് നൽകുന്നു അവ ഒരു ചാക്രിക ക്രമത്തിലാണ് നമ്മൾ അവരെ നോക്കും അതിനാൽ നിങ്ങൾക്ക് ഇത് ഡെൽ സ്ക്വയേർഡ് U കൂട്ടണം 1 ഹരിക്കണം '1 കുറക്കണം 2 ന്യു' "ഡോ u ഹരിക്കണം ഡോ x ഡോ v ഹരിക്കണം ഡോ x ഡോ w ഹരിക്കണം ഡോ x"യുടെ ഡോ ഹരിക്കണം ഡോ x കൂട്ടണം "1 Fx ഹരിക്കണം G" 0 ത്തിന് തുല്യമാണ് ഈ ദിശകൾ നിങ്ങൾക്ക് ഇത് ചാക്രികമായി ഉണ്ടാകും u ഡിസ്പ്ലേസ്മെന്റിനായി നിങ്ങൾക്ക് ഡോ ബൈ ഡോ x ഉണ്ട് v സ്ഥാനചലനത്തിനായി നിങ്ങൾക്ക് ഡോ ബൈ ഡോ y ഉം w സ്ഥാനചലനത്തിനായി ഡോ ബൈ ഡോ z യും ആയിരിക്കും സമവാക്യത്തിന്റെ അടിസ്ഥാന രൂപം സമാനമാണ് ഇവിടെ നിങ്ങൾക്ക് Fx Fy Fz എന്നിവയുണ്ട് ഡെൽ എന്നത് വളരെ പ്രശസ്തമായ ഓപ്പറേറ്ററാണ് ഡോ സ്ക്വയർ ഹരിക്കണം ഡെൽ സ്ക്വയർ എന്നത് ഡോ സ്ക്വയർ ഹരിക്കണം ഡോ x സ്ക്വയർ ഡോ സ്ക്വയർ ഹരിക്കണം ഡോ y സ്ക്വയർ ഡോ സ്ക്വയർ ഹരിക്കണം ഡോ z സ്ക്വയർ എന്നല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ നോക്കേണ്ടത് ഗണിതശാസ്ത്ര വീക്ഷണകോണിൽ നിന്ന് u v w എന്നീ മൂന്ന് അജ്ഞാതരെ ഞാൻ കണ്ടെത്തണം എനിക്ക് മൂന്ന് സമവാക്യങ്ങളുണ്ട് അതിനാൽ ഇത് പരിഹരിക്കുന്നതിലൂടെ തിരിച്ചറിയാനും u v w എന്നിവയ്ക്കുള്ള പരിഹാരം നേടാനും എനിക്ക് കഴിയും എനിക്ക് സ്ഥലംമാറ്റം ലഭിച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലേക്ക് പോകുക തുടർന്ന് ഒടുവിൽ സമ്മർദ്ദങ്ങളിലേക്ക് പോകുക അതിനാൽ സ്ഥലംമാറ്റത്തിന്റെ കാര്യത്തിൽ നടപടിക്രമങ്ങൾ വളരെ നേരെയാണ് അതിനാൽ ഇതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് സ്ഥാനചലനം മുതൽ ബുദ്ധിമുട്ട് കണക്കാക്കുക തുടർന്ന് ഉചിതമായ ഫീൽഡ് സമവാക്യങ്ങൾ ഉപയോഗിച്ച് സമ്മർദ്ദം അതിർത്തി വ്യവസ്ഥകളും സന്തുലിതാവസ്ഥയും തൃപ്തിപ്പെടുത്തുന്ന സ്ഥാനചലനങ്ങൾ നിങ്ങൾ വിലയിരുത്തുകയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് അതിനാൽ സ്വപ്രേരിതമായി സ്ഥാനചലനത്തിന്റെ അനുയോജ്യത ഉറപ്പുനൽകുന്നു വാസ്തവത്തിൽ നമ്മുടെ പക്കലുള്ള വളരെ പ്രസിദ്ധമായ പരിമിത ഘടക കോഡുകൾ അത് സ്ഥാനചലന രൂപീകരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു അഭിമുഖത്തിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പരിമിതമായ ഘടക രൂപീകരണത്തിൽ നിങ്ങൾ എവിടെയാണ് അനുയോജ്യത കാണുന്നത് ഇത് ഒരു സ്ഥാനചലനം അടിസ്ഥാനമാക്കിയുള്ള ഫോർമുലേഷനാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും അതിനാൽ അനുയോജ്യത യാന്ത്രികമായി സംതൃപ്തമാണ് ഇപ്പോൾ അനുയോജ്യമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആറ് സ്ട്രെയിൻ ഘടകങ്ങളുണ്ടെന്ന് ഞാൻ ഇതിനകം ചൂണ്ടിക്കാണിച്ചു അവ മൂന്ന് സ്ഥാനചലന ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതുമൂലം എന്താണ് പ്രശ്നം അനിയന്ത്രിതമായ സ്ട്രെയിൻ ഫീൽഡിൽ നിന്നുള്ള സ്ഥാനചലനങ്ങൾ നിർണ്ണയിക്കുന്നത് സാധുവായ സ്ഥാനചലന ഫീൽഡിലേക്ക് നയിച്ചേക്കില്ല അജ്ഞാതരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സമവാക്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നതാണ് പ്രശ്നം കാണുക അതും ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തുല്യമായ അജ്ഞാതരും തുല്യ സംഖ്യകളും ഉണ്ടായിരിക്കണം രണ്ടായാലും സമവാക്യങ്ങളുടെ എണ്ണം കൂടുതലോ സമവാക്യങ്ങളുടെ എണ്ണം കുറവോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കേവലം ബന്ധിപ്പിച്ച ബോഡികളിലാണ് അനുയോജ്യത വ്യവസ്ഥകൾ ഞാൻ നിറവേറ്റുകയാണെങ്കിൽ സ്ട്രെയിൻ ഫീൽഡിൽ നിന്ന് സ്ഥാനചലന ഫീൽഡ് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അനുയോജ്യത വ്യവസ്ഥകൾ അഭ്യർത്ഥിക്കുകയാണെങ്കിൽ മറുവശത്ത് ബന്ധിപ്പിച്ച ശരീരങ്ങളെ വർദ്ധിപ്പിക്കാൻ ഞാൻ പോയാൽ സ്ഥാനചലനത്തിന്റെ പ്രത്യേകത ഞാൻ ഇനിയും നോക്കേണ്ടതുണ്ട് അനുയോജ്യത വ്യവസ്ഥകൾ മാത്രം പര്യാപ്തമല്ല സ്ഥലംമാറ്റ മേഖലയുടെ പ്രത്യേകത കൂടി ഞാൻ നോക്കേണ്ടതുണ്ട് നിങ്ങൾ അനുയോജ്യത വ്യവസ്ഥകൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് സെറ്റ് സമവാക്യങ്ങൾ നിർമ്മിക്കാൻ കഴിയും അത് നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിരിക്കില്ല ഷിയർ സ്ട്രെയിൻ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധാരണ സ്ട്രെയിൻ ഘടകങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സെറ്റ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കാം അതിനാൽ ഇടത് വശത്ത് നിങ്ങൾക്ക് സാധാരണ സമ്മർദ്ദ ഘടകങ്ങൾ ഉണ്ടാകും വലതുവശത്ത് നിങ്ങൾക്ക് കത്രിക ഷിയർ സമ്മർദ്ദത്തിന്റെ അനുയോജ്യമായ സംയോജനം ഉണ്ടാകും നിങ്ങൾക്ക് ഇടത് വശത്ത് കത്രിക സമ്മർദ്ദ ഘടകങ്ങളും സാധാരണ സമ്മർദ്ദത്തിന്റെ അനുയോജ്യമായ കോമ്പിനേഷനുകളും ഉണ്ടാകും നമ്മൾ അവരെ നോക്കും വാസ്തവത്തിൽ നിങ്ങളുടെ മുമ്പത്തെ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കുമായിരുന്നു അനുയോജ്യത വ്യവസ്ഥകൾ സെറ്റ് 1 ഇതുപോലെ തോന്നുന്നു ഇതും ചാക്രിക ക്രമത്തിലാണ് ഇടതുവശത്ത് നിങ്ങൾക്ക് കത്രിക സമ്മർദ്ദമുണ്ട് അവ സാധാരണ സമ്മർദ്ദ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് സ്ട്രെയിൻ എപ്സിലോൺ xy എപ്സിലോൺ yz എപ്സിലോൺ zx എന്നിവയുണ്ട് നിങ്ങളുടെ അവസ്ഥ എന്താണ് ഡോ സ്ക്വയർ എപ്സിലോൺ xy ഹരിക്കണം ഡോ x ഡോ y യുടെ 2 തവണ ഡോ സ്ക്വയർ എപ്സിലോൺ xx ഹരിക്കണം ഡോ y സ്ക്വയർ കൂട്ടണം ഡോ സ്ക്വയർ എപ്സിലോൺ yy ഹരിക്കണം ഡോ x സ്ക്വയർ നു സമമാണ് നിങ്ങളുടെ കുറിപ്പുകളിൽ ഈ സമവാക്യങ്ങൾ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു ചാക്രിക ക്രമത്തിലാണ് നിങ്ങൾ അത്തരം ഒരു പദപ്രയോഗം എഴുതുകയാണെങ്കിൽ ആ ഉദാഹരണം പിന്തുടർന്ന് നിങ്ങൾക്ക് മറ്റൊന്നിനായി എഴുതാം അതിനാൽ എനിക്ക് എപ്സിലോൺ yz ഉണ്ടെങ്കിൽ ഈ സമവാക്യത്തിൽ എനിക്ക് എപ്സിലോൺ yy എപ്സിലോൺ zz എന്നിവ ഉണ്ടാകും നിങ്ങൾ അതിനെ z യുമായി വേർതിരിച്ചറിയുന്നു തുടർന്ന് ഇവിടെ y യുമായി വേർതിരിച്ചറിയുക അതിനാൽ ഞാൻ എപ്സിലോൺ zx ലേക്ക് പോകുമ്പോൾ എനിക്ക് ഡോ സ്ക്വയർ എപ്സിലോൺ zz ഹരിക്കണം ഡോ x സ്ക്വയർ കൂട്ടണം ഡോ സ്ക്വയർ എപ്സിലോൺ xx ഹരിക്കണം ഡോ z സ്ക്വയർ എന്ന് ഉണ്ട് സ്ട്രെയിൻ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണിത് ഓരോ സ്ട്രെയിൻ ഘടകവും ഒരു പ്രത്യേക ഡിസ്പ്ലേസ്മെന്റ് ഘടകവുമായി മാത്രം ബന്ധപ്പെട്ടതിനാൽ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിന്റെ അനുയോജ്യതയ്ക്ക് ഊന്നൽ നൽകുന്നതിന് ഈ സ്ട്രെയിൻ ഘടകങ്ങൾ പരസ്പരബന്ധിതമായിരിക്കണം അവ പൂർണമായും സ്വതന്ത്രമല്ല മറ്റൊരു സെറ്റ് എനിക്ക് ഇടതുവശത്ത് സാധാരണ സമ്മർദ്ദ ഘടകമുണ്ട് വലതുവശത്ത് നിങ്ങൾക്ക് കത്രികയുടെ സംയോജനമുണ്ട് സമ്മർദ്ദ ഘടകങ്ങൾ എനിക്ക് ഇവിടെ എന്താണ് ഉള്ളത് എനിക്ക് ഡോ സ്ക്വയർ എപ്സിലോൺ xx ഹരിക്കണം ഡോ y ഡോ z മൈനസ് ഡോ എപ്സിലോൺ yz ഹരിക്കണം ഡോ x കൂട്ടണം ഡോ എപ്സിലോൺ zx ഹരിക്കണം ഡോ y കൂട്ടണം ഡോ എപ്സിലോൺ xy ഹരിക്കണം ഡോ z യുടെ ഡോ ഹരിക്കണം ഡോ x നു സമമാണ് ഈ സമവാക്യം ചാക്രികമായി ആവർത്തിക്കുന്നു മൈനസ് ചിഹ്നം ഇവിടെയുള്ള വ്യത്യാസവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഡോ ഹരിക്കണം ഡോ x നെ ഞാൻ വേർതിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മൈനസ് ചിഹ്നം ഘടിപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തെ പദപ്രയോഗത്തിൽ ഞാൻ ഡോ ഹരിക്കണം ഡോ y വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ ഡോ ഹരിക്കണം ഡോ y യുമായി ബന്ധപ്പെട്ട പദത്തിലേക്ക് മൈനസ് ചിഹ്നം വരുന്നു ഡോ ഹരിക്കണം ഡോ z എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഉള്ളപ്പോൾ സമാനമായ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഡോ ഹരിക്കണം ഡോ z നെ മൈനസ് ചിഹ്നം ഘടിപ്പിച്ചിരിക്കുന്നു ഘടകങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങൾ എപ്സിലോൺ xx നോക്കിയാൽ എനിക്ക് എപ്സിലോൺ yz zx xy എന്നിവയുണ്ട് അവ ആവർത്തിക്കുന്നു സ്ഥാനം അനുസരിച്ച് മൈനസ് ചിഹ്നം മാറുന്നു ആദ്യ കേസിൽ x നെ സംബന്ധിച്ച് നിങ്ങൾ വേർതിരിക്കുന്നു രണ്ടാമത്തെ കേസ് നിങ്ങൾ y യുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒടുവിൽ നിങ്ങൾ z മായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവ വളരെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനുകളാണ് ഇപ്പോൾ നമ്മൾ അവരെ നോക്കാൻ ആഗ്രഹിക്കുന്നത് സമ്മർദ്ദ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ നോക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു സ്ട്രെസ് ഘടകങ്ങൾ ഉൾപ്പെടുത്തി പരിഹരിക്കുന്നതിലൂടെ നിങ്ങൾക്കറിയാം ഇത് അൽപ്പം ഉൾപ്പെടുന്ന പ്രക്രിയയാണ് എന്നിരുന്നാലും അന്തിമ പദപ്രയോഗം നമ്മൾ നോക്കും ഇവ ബെൽട്രാമി മിച്ചൽ സമവാക്യങ്ങൾ എന്നറിയപ്പെടുന്നു സമവാക്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമ്മൾ നിരീക്ഷിക്കും ഈ സമവാക്യങ്ങൾ വളരെ ദൈർഘ്യമേറിയതാണെങ്കിലും അവ എഴുതാൻ വേദനിക്കുന്നു ഞാൻ നിങ്ങൾക്കായി അവ വായിക്കും ഡെൽ സ്ക്വയർഡ് സിഗ്മ xx കൂട്ടണം 1 ഹരിക്കണം 1 കൂട്ടണം ന്യു ഡോ സ്ക്വയർഡ് ഹരിക്കണം ഡോ x സ്ക്യുയർഡ് I1 ഇവിടെ I1 ആദ്യത്തെ മാറ്റമാണ് അത് മൈനസ് ന്യു ഹരിക്കണം 1 കുറക്കണം ന്യു ഡോ Fx ഹരിക്കണം ഡോ x കൂട്ടണം ഡോ Fy ഹരിക്കണം ഡോ y കൂട്ടണം ഡോ Fz ഹരിക്കണം ഡോ z കുറക്കണം ഡോ Fx ഹരിക്കണം ഡോ x യുടെ 2 തവണക്കു സമമാണ് അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ഈ പദം എല്ലാ പദപ്രയോഗങ്ങൾക്കും ആവർത്തിക്കുന്നു അവസാന ടേം മാത്രം മാറുന്നു ആദ്യത്തെ സമവാക്യം Fx ഉം രണ്ടാമത്തെ സമവാക്യം Fy ഉം മൂന്നാമത്തെ സമവാക്യം Fz ഉം ആണ് ഇത് സിഗ്മ xx സിഗ്മ yy സിഗ്മ zz എന്നിങ്ങനെ മാറുന്നു മധ്യ പദപ്രയോഗം എല്ലാം സമാനമായി തുടരുന്നു ആദ്യ പദപ്രയോഗം ഡോ സ്ക്വയർഡ് ഹരിക്കണം ഡോ x സ്ക്വയറും രണ്ടാമത്തെ എക്സ്പ്രഷൻ ഡോ സ്ക്വയർഡ് ഹരിക്കണം ഡോ y സ്ക്വയറും മൂന്നാമത്തെ എക്സ്പ്രഷന് ഡോ സ്ക്വയർഡ് ഹരിക്കണം ഡോ z സ്ക്വയറും ആണ് നിങ്ങൾ നോക്കേണ്ട മറ്റൊരു വശം നിങ്ങൾ ഇത് എന്താണെന്ന് കാണുക Fx Fy Fz എന്നിവ ശരീരശക്തികളാണ് ശരീരശക്തി സ്ഥിരമായി നിൽക്കുകയോ പൂജ്യത്തിലേക്ക് പോകുമ്പോഴോ ആണ് സോളിഡ് മെക്കാനിക്സിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് കാണുക ഇത് സ്ഥിരമാണെങ്കിലും പൂജ്യത്തിലേക്ക് പോയാലും ഈ പദപ്രയോഗങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ വളരെ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ശരീരശക്തി സ്ഥിരമായിരിക്കുമ്പോൾ ഞാൻ കേസ് എടുക്കുന്നുവെന്ന് കരുതുക ഈ വ്യത്യാസങ്ങളൊന്നും നിലനിൽക്കില്ല അവയെല്ലാം പൂജ്യത്തിലേക്ക് പോകും അതിനാൽ ഈ പദപ്രയോഗങ്ങളുടെ വലതുഭാഗം പൂജ്യത്തിലേക്ക് പോകും നിങ്ങൾ ഇടത് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ സമവാക്യം പോയ്സോൺ അനുപാതത്തിന്റെ ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ഇത് മനസ്സിൽ സൂക്ഷിക്കണം അതിനാൽ ശരീരശക്തികളുടെ അഭാവത്തിൽ നിങ്ങൾ ഒരു ത്രിമാന പ്രശ്നം നോക്കുമ്പോൾ മെറ്റീരിയലിന്റെ ഇലാസ്റ്റിക് സ്ഥിരത പ്രവർത്തിക്കുന്നു അതിനാൽ എനിക്ക് അത്തരം മൂന്ന് പദപ്രയോഗങ്ങളുണ്ട് കത്രിക സമ്മർദ്ദ അളവുകൾ ഉൾപ്പെടുന്ന അത്തരം മൂന്ന് പദപ്രയോഗങ്ങൾ കൂടി എനിക്ക് ഉണ്ടാകും അവ ഡെൽ സ്ക്വയർഡ് സിഗ്മ xy കൂട്ടണം 1 ഹരിക്കണം 1 കൂട്ടണം ന്യു ഡോ സ്ക്വയർഡ് ഹരിക്കണം ഡോ x ഡോ y ഗുണിക്കണം I1 സമം മൈനസ് ഡോ Fx ഹരിക്കണം ഡോ y ഡോ Fy ഹരിക്കണം ഡോ x ആണ് ഇവ ചാക്രികമായി ആവർത്തിക്കുന്നു ഇത് വ്യക്തതയ്ക്കായി പരാമർശിക്കപ്പെടുന്നു ഡെൽ സ്ക്വയർ എന്നത് ഡോ സ്ക്വയർഡ് ഹരിക്കണം ഡോ x സ്ക്വയർഡ് കൂട്ടണം ഡോ സ്ക്വയർഡ് ഹരിക്കണം ഡോ y സ്ക്വയർഡ് കൂട്ടണം ഡോ സ്ക്വയർഡ് ഹരിക്കണം ഡോ z സ്ക്വയറല്ലാതെ മറ്റൊന്നുമല്ല I 1 എന്നത് ആദ്യത്തെ മാറ്റമില്ലാത്ത സിഗ്മ x കൂട്ടണം സിഗ്മ y കൂട്ടണം സിഗ്മ z Fi എന്നിവയാണ് യൂണിറ്റ് വോളിയത്തിന് ബോഡി ഫോഴ്സ് ഇവിടെ വീണ്ടും ശരീരശക്തി സ്ഥിരമായി അല്ലെങ്കിൽ പൂജ്യമായി തുടരുമ്പോൾ വലതുവശത്ത് പൂജ്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനാകും എന്നിരുന്നാലും പദപ്രയോഗത്തിൽ പോയ്സോൺ അനുപാതം അടങ്ങിയിരിക്കുന്നു ഇത് 1 ഹരിക്കണം 1 കൂട്ടണം ന്യൂ ആയി ദൃശ്യമാകുന്നു അതിനാൽ നിങ്ങൾ അനുയോജ്യതാ അവസ്ഥകളെ മൂന്ന് തലങ്ങളിൽ നോക്കുമ്പോൾ മെറ്റീരിയൽ സ്ഥിരാങ്കവും സ്ട്രെസ് ഫീൽഡിനെ സ്വാധീനിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് ഈ പദപ്രയോഗങ്ങൾ എഴുതുന്നത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് മതിയായ സമയമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ നിങ്ങൾക്കുള്ളത് സ്ട്രെസ് കോംപാറ്റിബിളിറ്റിയുടെ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ അതിർത്തി വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ പരിഹരിച്ചാൽ ഒരാൾക്ക് ആറ് സ്ട്രെസ് ഘടകങ്ങൾ ലഭിക്കും ആറ് അജ്ഞാതർക്കായി പരിഹരിക്കാൻ നിങ്ങൾക്ക് ആറ് ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുണ്ട് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് സമ്മർദ്ദ ഘടകങ്ങൾ ഉണ്ട് സ്ട്രെസ് ഘടകങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ട് കണ്ടെത്തുക തുടർന്ന് ഉചിതമായ ഫീൽഡ് സമവാക്യങ്ങൾ ഉപയോഗിച്ച് സ്ഥാനചലനങ്ങൾ കണ്ടെത്തുക കാണുക ഭരണപരമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ശരിക്കും വിശകലനപരമായ സമീപനം നോക്കുകയാണെങ്കിൽ പരിഹരിക്കാവുന്ന ത്രിമാന പ്രശ്നങ്ങളുടെ എണ്ണം വളരെ കുറവാണ് വളരെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമാണ് ആളുകൾ ഇതിൽ പരിഹരിച്ചത് പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാംഖികവും പരീക്ഷണാത്മകവുമായ സാങ്കേതിക വിദ്യകൾ ശരിക്കും ആവശ്യമുള്ളതിന്റെ കാരണം അതാണ് പ്ലെയിൻ സ്ട്രെസും പ്ലെയിൻ സ്ട്രെയിൻ ഫോർമുലേഷനും എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് തലം ഇലാസ്റ്റിക് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ നോക്കും വാസ്തവത്തിൽ ഈ സ്ലൈഡിൽ ആനിമേഷൻ നിരീക്ഷിക്കുക ഇത് വരയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല ഈ പ്രത്യേക കേസുകളിൽ ഓരോന്നിനും നമ്മൾ പ്രത്യേകം സമയം ചെലവഴിക്കും ആ സമയത്ത് നിങ്ങൾ ആനിമേഷൻ വരച്ചാൽ കൊള്ളാം സാധാരണ ത്രിമാന പ്രശ്നങ്ങളേക്കാൾ എളുപ്പത്തിൽ തലം പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും കാരണം അവരുടെ ചികിത്സയിൽ ചില ലളിതമായ അനുമാനങ്ങൾ നടത്താം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ലളിതമാക്കുന്നു വാസ്തവത്തിൽ പലതരം പ്രായോഗിക പ്രശ്നങ്ങൾ ഒരു പ്ലെയിൻ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യം എന്ന് ലളിതമാക്കാൻ കഴിയും എന്താണ് ഒരു പ്ലെയിൻ ബോഡി ഒരു തലം ബോഡിയിൽ വളരെ പ്രധാനപ്പെട്ട യൂണിഫോം കനം ഉള്ള ഒരു പ്രദേശം അടങ്ങിയിരിക്കുന്നു കനം ഏകതാനമായിരിക്കണം രണ്ട് സമാന്തര തലങ്ങളും ഏതെങ്കിലും ലാറ്ററൽ ഉപരിതലവും അതിർത്തിയായിരിക്കണം അതിനാൽ ഇവിടെ ഊന്നിപ്പറയുന്നത് മുകളിലെ ഉപരിതലവും താഴത്തെ ഉപരിതലവും തലം ആയിരിക്കണം അവ ആയിരിക്കണം സമാന്തരമായി ഇത് ബന്ധിപ്പിക്കാൻ കഴിയും ഏതെങ്കിലും ലാറ്ററൽ ഉപരിതലം ആകാരം എന്തും ആകാം ശരീര കനം ഏകതാനമായിരിക്കണം അത് ഒരുപക്ഷെ വളരെ കട്ടിയുള്ളതോ വളരെ നേർത്തതോ ആയിരിക്കാം രണ്ടും ഈ കേസുകൾ നിങ്ങൾക്ക് ലളിതമായ രീതിശാസ്ത്രമായി തിരിച്ചറിയാൻ കഴിയും കനം നീളമുള്ളപ്പോൾ വളരെ ഉയർന്നതാണ് സാധാരണയായി പ്ലെയിൻ സ്ട്രെയിൻ സമീപനം ഉപയോഗിക്കുന്നു മറുവശത്ത് കനം ചെറുതാണെങ്കിൽ പ്ലെയിൻ സ്ട്രെസ് സമീപനം നടപ്പിലാക്കുന്നു ലോഡിംഗ് തലം x y ആയിരിക്കണം എന്നതാണ് ഇവിടെ പ്രധാന കാര്യം ഇപ്പോൾ നമ്മൾ ഓരോന്നായി തലം സമ്മർദ്ദവും തലം ബുദ്ധിമുട്ടും ഏറ്റെടുക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഡയഗ്രം വരയ്ക്കാം ഇവിടെ പ്രധാന കാര്യം ലോഡിംഗ് x y തലം ആയിരിക്കണം കനം ഏകദേശം അടുത്താണ് പൂജ്യത്തിലേക്ക് സൌകര്യത്തിനായി മാത്രം നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു പരിമിത കനം കാണിക്കുന്നു വാസ്തവത്തിൽ ഇത് ഒരു തലം മാത്രമാണ് നിങ്ങൾ തലം സമ്മർദ്ദം ചെലുത്തുന്ന നിമിഷത്തിൽ എല്ലാവരും ചോദിക്കും തലത്തിന്റെ സമ്മർദ്ദ സാഹചര്യം എന്താണ് നിർവചിച്ചിരിക്കുന്നത് മിക്കപ്പോഴും നിങ്ങൾ സ്ട്രെസ് ടെൻസറുമായി പുറത്തുവരും നിങ്ങൾ സ്ട്രെസ് ടെൻസറിനെ സിഗ്മ xx ടോ xy ടോ yx സിഗ്മ yy എന്ന് പ്രസ്താവിക്കുന്നു പക്ഷേ ഇത് ഇവിടെ അവസാനിക്കുന്നില്ല തലം സമ്മർദ്ദവും പ്ലാനർ പ്രശ്നങ്ങളും നിങ്ങൾ പറയുന്ന നിമിഷം കാണുക ആളുകൾ കരുതുന്നത് പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാം തലത്തിൽ തന്നെ തുടരുന്നു അത് വളരെ ശക്തമായ ഒരു നിഗമനമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ തലം സമ്മർദ്ദം നോക്കുമ്പോൾ സ്ട്രെസ് ടെൻസർ xy തലം മാത്രമാണ് തലം സമ്മർദ്ദ സാഹചര്യമായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് സിഗ്മ xx സിഗ്മ y ടോ xy എന്നിവ ഉണ്ടാകും എന്നാൽ നിങ്ങൾ ബുദ്ധിമുട്ടിന്റെ അളവ് നോക്കുന്നു അത് ഇനി ദ്വിമാനമല്ല അത് ത്രിമാനമായിരിക്കും എന്താണ് സ്ട്രെയിൻ ടെൻസർ സ്ട്രെയിൻ ടെൻസർ ഇതുപോലെ ദൃശ്യമാകും എനിക്ക് എപ്സിലോൺ xx എപ്സിലോൺ xy എപ്സിലോൺ yx എപ്സിലോൺ yy എപ്സിലോൺ zz എന്നിവയുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഒരു ടെൻഷൻ സ്ട്രിപ്പ് എടുത്ത് വലിക്കുകയാണെങ്കിൽ കട്ടിയിലെ മാറ്റം നിങ്ങൾ ശരിക്കും തിരിച്ചറിയുകയില്ല കാരണം സ്ട്രെസ് ലെവലുകൾ വളരെ ചെറുതാണ് ബുദ്ധിമുട്ട് വളരെ ചെറുതായിരിക്കും മറുവശത്ത് എനിക്ക് വളരെ ഉയർന്ന പ്രാദേശിക സമ്മർദ്ദം കാരണം ഒരു വിള്ളൽ ഉള്ള ഒരു മാതൃക ഉണ്ടെങ്കിൽ നിങ്ങൾ വിള്ളൽ ടിപ്പിന് സമീപം കണ്ടെത്തും ഒരു ഡിംപിൾ രൂപം കൊള്ളും ലാറ്ററൽ ബുദ്ധിമുട്ട് മൂലമാണ് അത് ലാറ്ററൽ ബുദ്ധിമുട്ട് അവഗണിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള സോണിൽ ഡിംപിൾ രൂപീകരണം ഉണ്ട് വാസ്തവത്തിൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഡയഗ്രം കാണിക്കും ഇത് ഒരു അലുമിനിയം മാതൃകയ്ക്കായി എടുത്തതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും ഞാൻ ഈ ചിത്രം വലുതാക്കും എനിക്ക് ഒരു വിള്ളൽ ഉണ്ട് വിള്ളലിന്റെ അഗ്രത്തിനടുത്ത് നിങ്ങൾ ഒരു പ്രധാന മാറ്റം കാണുന്നു ഇങ്ങനെയാണ് മോഡൽ ലോഡുചെയ്തത് ഇത് ഒരു ഡിംപിൾ ആണ് ഇത് പ്രധാനമായും നിങ്ങൾക്ക് ലാറ്ററൽ ബുദ്ധിമുട്ട് ഉള്ളതിനാലാണ് ഇത് അവഗണിക്കാൻ കഴിയില്ല എനിക്ക് ഉയർന്ന സമ്മർദ്ദ സാന്ദ്രത ഉള്ളപ്പോൾ അത് വളരെ പ്രാധാന്യമർഹിക്കുന്നു വാസ്തവത്തിൽ കാസ്റ്റിക്സ് രീതി എന്ന പുതിയ പരീക്ഷണാത്മക സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിന് ആളുകൾ ഇത് ഒരു ശാരീരിക സവിശേഷതയായി ഉപയോഗിച്ചു നിങ്ങൾക്ക് സാധാരണയായി തലം സമ്മർദ്ദം അറിയാം നിങ്ങൾ സ്ട്രെസ് ടെൻസർ നോക്കി അത് തുടരുക സ്ട്രെയിൻ ടെൻസർ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നിങ്ങൾ നോക്കുകയുമില്ല അത് തെറ്റാണ് സ്ട്രെസ് ടെൻസറും സ്ട്രെയിൻ ടെൻസറും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് മാത്രമല്ല നിങ്ങൾ പോയി വിമാന സമ്മർദ്ദ സാഹചര്യത്തിന്റെ കാര്യത്തിൽ പരമാവധി ഷിയർ സ്ട്രെസ് പ്ലെയിനിന്റെ ഓറിയന്റേഷൻ എന്താണെന്ന് നോക്കാം കാരണം പരമാവധി സമ്മർദ്ദം തലം സമ്മർദ്ദം എന്നിവയിലും പരമാവധി കത്രിക തലം ഓറിയന്റേഷനുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ക്രാക്ക് ടിപ്പിൽ പ്ലാസ്റ്റിക് രൂപഭേദം വരുത്തുമ്പോൾ സ്ലിപ്പ് ആ തലം മാത്രമേ നിർദ്ദേശിക്കുകയുള്ളൂ അതിനാൽ തലത്തിന്റെ ബുദ്ധിമുട്ട് തലം സമ്മർദ്ദം എന്നിവയിൽ തലങ്ങൾ തെറിക്കുന്നത് എങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനാൽ ഈ കേസുകൾക്കായി പോയി മോഹർ സർക്കിളിലേക്ക് നോക്കുന്നത് മൂല്യവത്താണ് ഇപ്പോൾ നമ്മൾ തലം ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നു നിങ്ങൾ തലം ബുദ്ധിമുട്ടുന്ന നിമിഷം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ കനം നോക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാന കാര്യം ലോഡിംഗ് കനം ദിശയിൽ ഏകതാനമായിരിക്കണം ഇവിടെ ഇത് ദിശ z ആയി കാണിക്കുന്നു ലോഡിംഗ് ആകർഷകമല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യം തലം ബുദ്ധിമുട്ടായി കണക്കാക്കാനാവില്ല സാധാരണയായി നിങ്ങൾ ഒരു റോളർ ബെയറിംഗിന്റെ കാര്യം എടുക്കും റോളർ ബെയറിംഗിലെ റോളറുകൾ ഒരു പ്ലെയിൻ സ്ട്രെയിൻ പ്രശ്നമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാം ഉണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ കണക്കാക്കുന്ന അണക്കെട്ട് അരികുകളിൽ നിന്ന് ഒരു പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യമായി കണക്കാക്കുന്നു ഇത് ഏകതാനമായി ലോഡുചെയ്തു ഇത് വളരെ ദൈർഘ്യമേറിയതും തലം ബുദ്ധിമുട്ട് അനുമാനവും സാധുവാണ് ഇവിടെ വീണ്ടും നിങ്ങൾ സ്ട്രെസ് ടെൻസറും നോക്കണം സ്ട്രെയിൻ ടെൻസർ ഉപയോഗിച്ച് നിങ്ങൾ നിർത്തരുത് നിങ്ങൾ സ്ട്രെസ് ടെൻസറിലേക്ക് നോക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും പുരുഷാരമായിരിക്കും നിങ്ങൾക്ക് സിഗ്മ zz ഉം ഉണ്ടാകും അത് ഒരു തലത്തിലല്ല ഇത് 3 ബൈ 3 മാട്രിക്സ് ആണ് ഇതിന്റെ അർത്ഥമെന്താണ് ഒരു പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിൽ കാണുക നിങ്ങൾ ഒരു സ്ലൈസ് പുറത്തെടുക്കുകയും അരികുകൾ നേരെ നിൽക്കുകയും വേണം എപ്സിലോൺ z എന്നതിന്റെ അർത്ഥം എനിക്ക് ഇത് z ദിശയാണെന്ന് കരുതുക എപ്സിലോൺ z 0 എന്നായി തുടരുന്നു കാരണം ഈ രണ്ട് ഉപരിതലങ്ങളും നേരെയായിരിക്കണം അവ നേരെയാക്കുന്നതിന് നിങ്ങൾക്ക് z ദിശയിൽ സമ്മർദ്ദങ്ങൾ വികസിക്കും കാരണം തലങ്ങൾ നേരെയായി തുടരും വാസ്തവത്തിൽ ഒരു പരിമിത ബോഡി ക്രാക്ക് പ്രശ്നത്തിനുള്ള പരിഹാരം വിപുലീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഇത് നോക്കും ആ ലായനിയിൽ നിന്ന് അനന്തമായ ശരീരത്തിലെ കൊളീനിയർ വിള്ളലുകളുടെ പരമ്പരയെക്കുറിച്ച് നമ്മൾ പഠിക്കും നിങ്ങൾക്ക് ഒരൊറ്റ അഗ്രമുള്ള വിള്ളലോ ഇരട്ട അറ്റങ്ങളുള്ള വിള്ളലോ പുറത്തെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു തലത്തിലൂടെ കടന്നുപോകും ഒപ്പം ഏത് തരത്തിലുള്ള സാഹചര്യമാണ് ഉപരിതലങ്ങൾ പരിപാലിക്കേണ്ടതെന്ന് നമ്മൾ വാദിക്കും അതിനാൽ നിങ്ങൾ പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യം നോക്കുമ്പോൾ സിഗ്മ zz എന്നതിന്റെ അർത്ഥം നിങ്ങൾ ശാരീരികമായി തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വേണം അതിനാൽ ഇവിടെ വീണ്ടും നിങ്ങൾ പോയി പരമാവധി കത്രിക സമ്മർദ്ദത്തിന്റെ ഓറിയന്റേഷൻ എന്താണെന്ന് നോക്കൂ നിങ്ങൾ ഈ പ്രശ്നം ഒരു ത്രിമാനമായി കൈകാര്യം ചെയ്യണം അതുപോലെ തലത്തിന്റെ സമ്മർദ്ദവും ഒരു ത്രിമാനമായി കാണുന്നു ഈ സ്ഥലത്ത് തലം എന്താണ് അത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നിങ്ങൾ പോയി നിങ്ങളുടെ ധാരണ വ്യക്തമാക്കുക പ്ലാസ്റ്റിക് രൂപഭേദം കാണുമ്പോൾ തലം ബുദ്ധിമുട്ട് തലം സമ്മർദ്ദം എന്നിവ സംഭവിക്കുമ്പോൾ ഏത് തരത്തിലുള്ള രൂപഭേദം സംഭവിക്കുന്നുവെന്ന് യുക്തിസഹമാക്കാൻ ആ ധാരണ നിങ്ങളെ സഹായിക്കും ലാളിത്യത്തിനായി ശരീരശക്തിയുടെ അഭാവത്തിൽ നമ്മൾ പരിഹാര രീതിശാസ്ത്രത്തിലേക്ക് നോക്കാൻ പോകുന്നു സ്ട്രെസ് ടെൻസറും പ്ലെയിൻ സ്ട്രെസ് പ്ലെയിൻ സ്ട്രെയിൻ കേസുകളിൽ സ്ട്രെയിൻ ടെൻസറും എന്താണെന്ന് നമ്മൾ ഇതിനകം കണ്ടു രണ്ട് സാഹചര്യങ്ങളിലും സ്വതന്ത്ര സമ്മർദ്ദ ഘടകങ്ങളുടെ എണ്ണം മൂന്ന് മാത്രമാണ് തലം സമ്മർദ്ദത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എപ്സിലോൺ z കണക്കാക്കാം തലം സമ്മർദ്ദത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സിഗ്മ z കണക്കാക്കാം അവ മറ്റ് അളവുകളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ സ്വതന്ത്ര അളവുകൾ മൂന്ന് മാത്രമാണ് അതിനാൽ ഈ മൂന്ന് അജ്ഞാതരെ പരിഹരിക്കാൻ നിങ്ങൾക്ക് മൂന്ന് സമവാക്യങ്ങൾ ആവശ്യമാണ് മൂന്ന് സമവാക്യങ്ങൾ എവിടെ നിന്ന് വരുന്നു നിങ്ങൾക്ക് സന്തുലിത സമവാക്യങ്ങൾ ഉണ്ട് അവ വളരെ പ്രസിദ്ധമാണ് നിങ്ങൾ ഓർക്കുക നമ്മൾ ശരീരശക്തികളെ പരിഗണിക്കാൻ പോകുന്നില്ലെന്ന് നമ്മൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് അതിനാൽ സമവാക്യം ഡോ സിഗ്മ xx ഹരിക്കണം ഡോ x കൂട്ടണം ഡോ ടോ xy ഹരിക്കണം ഡോ y സമം 0 എന്ന് ചുരുങ്ങുന്നു ഡോ ടോ yx ഹരിക്കണം ഡോ x കൂട്ടണം ഡോ ടോ yy ഹരിക്കണം ഡോ y സമം 0 അനുയോജ്യതയുടെ സമവാക്യവും നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഫോർമുലേഷൻ ഉണ്ടാകുമ്പോൾ അനുയോജ്യത വ്യവസ്ഥകൾ ആവശ്യമാണെന്ന് നമ്മൾ ഇതിനകം പറഞ്ഞു ഈ രീതിയിൽ തലം സമ്മർദ്ദവും തലം സമ്മർദ്ദവും ഇത് കുറയ്ക്കുന്നു ബോഡി ഫോഴ്സിന്റെ അഭാവത്തിൽ ഇത് ഇതുപോലെ ദൃശ്യമാകുന്നു ഡെൽ സ്ക്വയേർഡ് സിഗ്മ xx കൂട്ടണം സിഗ്മ yy 0 ത്തിന് തുല്യമാണ് ഈ സമവാക്യം നിങ്ങൾ എത്ര തവണ നോക്കുമെന്ന് നിങ്ങൾക്കറിയാം ഒപ്പം അത് തുടരുക സമവാക്യം നിങ്ങളെ അറിയിക്കുന്നതെന്താണെന്ന് നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നില്ല ത്രിമാന രംഗം പരിശോധിക്കുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതായി കാണുക ശരീരശക്തികളുടെ അഭാവത്തിൽ പോലും ഭരണ സമവാക്യത്തിന് പോയ്സോൺ അനുപാതത്തിന്റെ രൂപത്തിൽ ഭൌതിക സ്ഥിരാങ്കം പ്രത്യക്ഷപ്പെടുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭരണ സമവാക്യത്തിൽ ഏതെങ്കിലും ഭൌതിക സ്ഥിരത അടങ്ങിയിട്ടില്ല ഇത് വളരെ അധിക നേട്ടമാണ് നിരീക്ഷണം വളരെ പ്രധാനമാണ് കാരണം ഫോട്ടോ ഇലാസ്റ്റിറ്റിയിൽ നിന്നുള്ള ഫലങ്ങൾ കൊണ്ട് ഫ്രാക്ചർ മെക്കാനിക്സിലെ പല പ്രതിഭാസങ്ങളെയും ചിത്രീകരിക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുന്നു ആളുകൾ ഫോട്ടോലാസ്റ്റിറ്റിയിൽ ക്രാക്ക് പ്രചാരണ പഠനങ്ങൾ നടത്തി മോഡ് I മോഡ് II മോഡ് III എന്നിവയിലും ആളുകൾ സ്റ്റാറ്റിക് പരീക്ഷണങ്ങൾ നടത്തി പ്രശ്നം തലം സമ്മർദ്ദം അല്ലെങ്കിൽ തലം ബുദ്ധിമുട്ട് ഉള്ളിടത്തോളം ഇലാസ്റ്റിക് സ്ഥിരാങ്കങ്ങൾക്ക് ഒരു പങ്കുമില്ല അതിനാൽ ഒരു പ്ലാസ്റ്റിക്കിൽ ഞാൻ കാണുന്നതെന്തും ഒരു ലോഹ മാതൃകയിൽ ഞാൻ കാണുന്നതിനു തുല്യമാണ് തീർച്ചയായും വിരൂപതകൾ വ്യത്യസ്തമായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് വികലതയെക്കുറിച്ചല്ല നിങ്ങളുടെ ശ്രദ്ധയെ സമ്മർദ്ദങ്ങളിലേക്ക് മാത്രം പരിഗണിക്കുന്നിടത്തോളം കാലം ഒരേ ലോഡിന് രണ്ടിനും ഒരേ അളവിലുള്ള സമ്മർദ്ദമുണ്ടാകും സാധാരണയായി നിങ്ങൾ പ്രോട്ടോടൈപ്പ് ബന്ധങ്ങളിലേക്ക് മോഡലിനെ ക്ഷണിക്കുകയും പ്രോട്ടോടൈപ്പിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനേക്കാൾ ഒരു ചെറിയ ലോഡ് ഒരു പ്ലാസ്റ്റിക് മോഡലിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ ലോഡിന്റെ ആ മൂല്യത്തിനായി വികസിപ്പിച്ച സമ്മർദ്ദങ്ങൾ ഒരു ലോഹ മാതൃകയിൽ സമാനമാണ് അതിനാൽ ദ്വിമാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഫോട്ടോഇലാസ്റ്റിറ്റിയുടെ സാധുതയെ ഗണിതശാസ്ത്രപരമായി ന്യായീകരിക്കുന്നു അതിനാൽ ഇതിന്റെ ഭാഗമായി നിങ്ങൾ അതും നോക്കണം എയറിയുടെ സമ്മർദ്ദ പ്രവർത്തനം അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സമവാക്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നതാണ് ആളുകൾ എങ്ങനെയാണ് സമീപിച്ചത് ആളുകൾ നമ്മുടെ ജീവിതം ലളിതമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അവർ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ സമീപനത്തിലേക്ക് നോക്കി ഇത് എയറി അവതരിപ്പിച്ചതാണെന്ന് നിങ്ങൾക്കറിയാം ഇതിനെ എയറി സ്ട്രെസ് ഫംഗ്ഷൻ സമീപനം എന്ന് വിളിക്കുന്നു മൂന്ന് സമവാക്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമുക്ക് പരിഹാരം നേടണം അത് ചെയ്യുന്നതിനുപകരം ഇനിപ്പറയുന്ന രീതിയിൽ സ്ട്രെസ് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ഫൈ എന്ന് ഊഹിച്ചുകൊണ്ട് പ്രശ്നം ഒരൊറ്റ സമവാക്യത്തിലേക്ക് ചുരുക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് സിഗ്മ xx ഫൈയുമായി ഡോ സ്ക്വയേർഡ് ഫൈ ഹരിക്കണം ഡോ വൈ സ്ക്വയർ പോലെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് കാർട്ടീഷ്യൻ ഫ്രെയിം റഫറൻസിനായുള്ളതാണ് നമ്മൾ കാർട്ടീഷ്യൻ സമ്മർദ്ദ ഘടകങ്ങളിലേക്ക് നോക്കുകയാണ് സിഗ്മ yy ഡോ സ്ക്വയേർഡ് ഫൈ ഹരിക്കണം ഡോ x സ്ക്വയറിനു സമവും ടോ xy മൈനസ് ഡോ സ്ക്വയേർഡ് ഫൈ ഹരിക്കണം ഡോ x ഡോ y ക്കു തുല്യവും ആണ് അതിനാൽ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത് ഫൈ കണ്ടെത്തുന്നതിലൂടെ സിഗ്മ x സ്ട്രെസ് ഘടകം സിഗ്മ y സ്ട്രെസ് ഘടകം ടോ xy സ്ട്രെസ് ഘടകം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും അതിനാൽ മൂന്ന് അജ്ഞാതങ്ങൾക്കുപകരം ഒരു ഫംഗ്ഷൻ മാത്രം നിർണ്ണയിക്കാൻ നമ്മൾ സമവാക്യങ്ങൾ പരിഷ്ക്കരിക്കും ഫൈ അറിയപ്പെടുന്ന നിമിഷം പ്രശ്നം പരിഹരിക്കപ്പെടും എനിക്ക് സമ്മർദ്ദങ്ങൾ ലഭിച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലേക്ക് പോകുക തുടർന്ന് സ്ഥലംമാറ്റത്തിലേക്ക് പോകുക സമവാക്യങ്ങൾ ഇങ്ങനെ ആണ് സിഗ്മ xx ഡോ ഫൈ സ്ക്വയേർഡ് ഹരിക്കണം ഡോ y സ്ക്വയേർഡ്നു തുല്യമാണ് സിഗ്മ yy ഡോ ഫൈ സ്ക്വയേർഡ് ഹരിക്കണം ഡോ y സ്ക്വയേർഡ്നു തുല്യമാണ് ടോ xy മൈനസ് ഡോ സ്ക്വയേർഡ് ഫൈ ഹരിക്കണം ഡോ x ഡോ y ക്കു തുല്യമാണ് ഡെൽ സ്ക്വയേർഡ് സിഗ്മ x കൂട്ടണം സിഗ്മ y ആയി നമ്മൾ ഇതിനകം അനുയോജ്യത കണ്ടുകഴിഞ്ഞു സിഗ്മ x സിഗ്മ y എന്നിവയുടെ നിർവചനം ഞാൻ മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ സമവാക്യം എങ്ങനെ മാറുന്നു സമവാക്യം ഡെൽ സ്ക്വയേർഡ് ഫൈയുടെ ഡെൽ സ്ക്വയർ 0 ത്തിന് തുല്യമായി മാറുന്നു ഇത് ഡെൽ പവർ 4 ഫൈയെ 0 ത്തിന് തുല്യമായി കുറയ്ക്കുന്നു വികസിപ്പിച്ച രൂപത്തിൽ ഇത് ഡോ പവർ 4 ഫൈയല്ലാതെ മറ്റൊന്നുമല്ല ഡോ x പവർ 4 കൂട്ടണം 2 ഡോ പവർ 4 ഫൈ ഹരിക്കണം ഡോ x സ്ക്വയർഡ് ഡോ y സ്ക്വയർഡ് കൂട്ടണം ഡോ പവർ 4 ഫൈ ഹരിക്കണം ഡോ y പവർ 4 0 ത്തിനു സമമാണ് അതിനാൽ നമ്മൾ നേടിയത് തലം ഇലാസ്റ്റിക് പ്രശ്നത്തിന് അതിർത്തി വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഫംഗ്ഷൻ ഫൈ കണ്ടെത്തുന്നതിന് പരിഹാരം കുറയ്ക്കുന്നു നമ്മൾ പോയി നോക്കണം ഇതുപോലുള്ള പ്രശ്നം നമ്മൾ പരിഹരിക്കുമോ മെറ്റീരിയലുകളുടെ കരുത്തിൽ നമ്മൾ പറഞ്ഞത് കാണുക നിങ്ങൾ സ്ഥലംമാറ്റ ഫീൽഡ് ഏറ്റെടുക്കുകയും ഒരു തരം മെലിഞ്ഞ അംഗങ്ങൾക്കായി പരിഹരിക്കുകയും ചെയ്യുന്നു ഇലാസ്തികത സിദ്ധാന്തത്തിൽ നമ്മൾ സ്ഥലംമാറ്റം കണക്കാക്കില്ലെന്ന് പറഞ്ഞു ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ വിലയിരുത്തുന്നു അപ്പോൾ നമ്മൾ യോഗ്യത നേടി ചില സാഹചര്യങ്ങളിൽ നാം സ്ഥലംമാറ്റത്തിന്റെ പ്രത്യേകത നോക്കേണ്ടതുണ്ട് അതിനാൽ കണക്റ്റുചെയ്ത ബോഡികൾ ഗുണിക്കുന്നത് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ് തുടർന്ന് നമ്മൾ പരീക്ഷണങ്ങൾ നോക്കാമെന്നും സ്ഥാനചലനം എങ്ങനെയെന്ന് നോക്കാമെന്നും നമ്മൾ പറഞ്ഞു നമ്മൾ എല്ലാം പറഞ്ഞു അവസാനമായി നമ്മൾ ഒരു ഗണിതശാസ്ത്ര വ്യായാമമായി കാണുന്നില്ല ഈ സമവാക്യത്തെയും അതിർത്തി വ്യവസ്ഥകളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രശ്നം എനിക്ക് നേടേണ്ടതുണ്ട് ഭാഗിക വിപരീത രീതി അതിനാൽ അതിർത്തി വ്യക്തമാക്കികൊണ്ട് ഞാൻ പ്രശ്നം നിർവചിക്കുകയും അതിൽ നിന്ന് ഫൈ വിലയിരുത്തുകയും വേണം പക്ഷെ നമ്മൾ അത് ചെയ്യില്ല വിപരീത സമീപനം എന്നറിയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പിന്തുടരും എന്നതാണ് നമ്മൾ ചെയ്യുന്നത് അതിനാൽ ഒരു വിപരീത സമീപനത്തിൽ നിങ്ങൾ എന്തുചെയ്യുന്നു നമ്മൾ ദ്വി ഹാർമോണിക് സമവാക്യം പരിഹരിച്ച് ഫൈ നേടുകയില്ല എന്നാൽ ദ്വി ഹാർമോണിക് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ഫൈയുടെ രൂപങ്ങൾ അന്വേഷിക്കും അതിനാൽ നമ്മൾ ഇത് ഒരു വിപരീത രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ എന്തുചെയ്യണം തന്നിരിക്കുന്ന ഒരു പ്രശ്നത്തിന് അതിർത്തി വ്യവസ്ഥ വ്യക്തമാക്കുക നിങ്ങൾക്ക് ഭരണപരമായ ഡിഫറൻഷ്യൽ സമവാക്യം അറിയാം ഭരണപരമായ ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിച്ച് ഫൈനേടുക നമ്മൾ അത് ചെയ്യില്ല ദ്വി ഹാർമോണിക് സമവാക്യം തൃപ്തിപ്പെടുത്താൻ ഏത് തരത്തിലുള്ള ഫൈ അനുവദനീയമാണെന്ന് നമ്മൾ നോക്കുന്നു ഒന്നുകിൽ വ്യക്തിപരമായി അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷനുകളിലെ പ്രവർത്തനങ്ങൾ ശാരീരികമായി ഏത് പ്രശ്നത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അന്വേഷിക്കുന്നു അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിപരീത സമീപനമാണ് സ്വീകരിക്കുന്നത് നിങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതാണ് ദ്വി ഹാർമോണിക് സമവാക്യം ദ്വി ഹാർമോണിക് സമവാക്യം തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധുവായ സ്ഥാനാർത്ഥികളാണ് ഫൈയുടെ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പരിശോധിക്കും ഈ സ്ട്രെസ് ഫംഗ്ഷൻ ഏത് ശാരീരിക പ്രശ്നത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് നമ്മൾ പോയി കാണും അതിനാൽ വാസ്തവത്തിൽ 1930 കളിൽ വിവിധതരം പ്രശ്നങ്ങൾക്ക് ഫൈ നിർണ്ണയിക്കുന്നതിൽ ഗവേഷണം കേന്ദ്രീകരിച്ചു ഫൈ നിർണ്ണയിക്കപ്പെടുന്ന നിമിഷം ബാക്കി എല്ലാം കണ്ടെത്തി കാരണം ഫൈ അറിയപ്പെടുന്നതോടെ സിഗ്മ x ഡോ സ്ക്വയേർഡ് ഹരിക്കണം ഫൈ ഡോ y സ്ക്വയറും മറ്റും ആയി നൽകുന്നു അതിനാൽ ഫൈ എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് വെല്ലുവിളി കാർട്ടീഷ്യൻ കോർഡിനേറ്റുകളിലെ സമ്മർദ്ദ പ്രവർത്തനത്തിന്റെ രൂപം ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഫൈയുടെ രൂപങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റുകൾ ഏറ്റെടുക്കുന്നു ധ്രുവീയ കോർഡിനേറ്റുകളിലെ ഫൈയുടെ രൂപങ്ങളും നമ്മൾ നോക്കും ഫൈ എന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാകാം ചിന്തിക്കാൻ ഏറ്റവും ലളിതമാണിത് ദ്വി ഹാർമോണിക് സമവാക്യം തൃപ്തിപ്പെടുത്തുന്നതും ഏത് ശാരീരിക പ്രശ്നമാണ് പരിഹരിക്കുന്നതെന്ന് അന്വേഷിക്കുന്നതുമായ പോളിനോമിയലിന്റെ വ്യത്യസ്ത ഓർഡറുകൾ നിങ്ങൾക്ക് എടുക്കാം ഫ്യൂറിയർ സീരീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫൈ പ്രതിനിധീകരിക്കാനും കഴിയും വാസ്തവത്തിൽ കാണുക നിങ്ങൾ ഒരു ഫസ്റ്റ് ലെവൽ കോഴ്സ് പഠിക്കുമ്പോൾ ബീമിന്റെ ദൈർഘ്യത്തിനൊപ്പം വളയുന്ന നിമിഷം എങ്ങനെ മാറുന്നുവെന്ന് മനസിലാക്കാൻ നിങ്ങൾ വളയുന്ന നിമിഷ ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രവും പഠിക്കുന്നു നിങ്ങൾ സാധാരണയായി കേന്ദ്രീകൃത ലോഡുകൾ എടുക്കും കാരണം വളയുന്ന നിമിഷം എങ്ങനെ വരയ്ക്കാമെന്ന് ചിത്രീകരിക്കാൻ അവ എളുപ്പമാണ് നിങ്ങൾ ഇലാസ്തികത സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ വിതരണം ചെയ്ത ലോഡിംഗ് കൈകാര്യം ചെയ്യുന്നത് എല്ലായ്പ്പോഴും സൌകര്യപ്രദമാണ് സാന്ദ്രീകൃത ലോഡുകൾ കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ് അതിനാൽ എനിക്ക് ഏകാഗ്രമായ ലോഡ് ഉള്ളപ്പോൾ ഒരു ഫോറിയർ സീരീസ് ഉപയോഗിക്കുകയും ഏകാഗ്രമായ ലോഡ് ലഭിക്കുന്നതിന് നിരവധി ഹാർമോണിക്സ് ഉപയോഗിക്കുകയും വേണം അതിനാൽ മൂന്ന് പോയിന്റ് വളയുന്നതിനുള്ള പരിഹാരം നിങ്ങൾ കണ്ടെത്തും വിതരണം ചെയ്ത ലോഡിംഗുള്ള ഒരു ബീമിനേക്കാൾ വളരെ സങ്കീർണ്ണമായ രീതിയിലാണ് ഫൊറിയർ സീരീസ് ഉപയോഗിക്കുന്നത് വളയുന്ന നിമിഷങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അത് മറ്റൊരു രീതിയിൽ പഠിക്കുന്നു അനലിറ്റിക് ഫംഗ്ഷനുകളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഫൈ കണ്ടെത്താനും കഴിയും വാസ്തവത്തിൽ ഫ്രാക്ചർ മെക്കാനിക്സിലെ ഒരു കോഴ്സിൽ സ്ട്രെസ് ഫംഗ്ഷൻ നിർവചിക്കുന്നതിനുള്ള അപേക്ഷകരായി നമ്മൾ അനലിറ്റിക് ഫംഗ്ഷനുകളെ നോക്കും ഒരു സ്വർണ്ണ ഖനിയിൽ ഞാൻ അടിക്കുന്ന നിമിഷം തന്നിരിക്കുന്ന പ്രശ്നത്തിന്റെ സമ്മർദ്ദ പ്രവർത്തനം എന്താണ് മറ്റെല്ലാ ഘട്ടങ്ങളും പൂർണ്ണമായും അറിയാം അതിനാൽ തന്നിരിക്കുന്ന ശാരീരിക പ്രശ്നത്തിന് എന്താണ് ഫൈ എന്ന് കണ്ടെത്തുന്നതിലാണ് വെല്ലുവിളി അത് ലളിതമായ ഒരു ജോലിയല്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫൈ കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ഉത്തരം ഒരാൾക്ക് അവബോധപൂർവ്വം അല്ലെങ്കിൽ പരിശോധനകളിലൂടെയും പിഴവുകളിലൂടെയും നേടാം അതിനാൽ വിശകലന വികസനം മുഴുവനും ഫൈ എന്ന സ്ട്രെസ് ഫംഗ്ഷനെ ആശ്രയിച്ചിരിക്കുന്നു തന്നിരിക്കുന്ന ഒരു പ്രശ്നത്തിനായുള്ള ഒരു സ്ട്രെസ് ഫംഗ്ഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും അതിർത്തി വ്യവസ്ഥകൾ സുഖകരമായി വ്യക്തമാക്കുന്നതിനായി ആളുകൾ വ്യത്യസ്ത കോർഡിനേറ്റ് സംവിധാനവും വികസിപ്പിച്ചതിന്റെ കാരണം ഇതാണ് അതിനാൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഒരു ലളിതമായ പ്രശ്നം ഏറ്റെടുക്കും നമ്മൾ നടപടിക്രമങ്ങൾ ആരംഭിച്ച് അടുത്ത ക്ലാസ്സിൽ തുടരും അതിനാൽ ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരേപോലെ വിതരണം ചെയ്യുന്ന ലോഡിന് കീഴിലുള്ള ബീം ആണ് ഇലാസ്തികത സിദ്ധാന്തത്തിലെ ഒരു കോഴ്സിൽ സാധാരണയായി പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണിത് നമ്മൾ ഹൈലൈറ്റുകൾ കാണും പൂർണ്ണമായ പരിഹാര നടപടിക്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയില്ല എന്താണ് കത്രിക ബലവും വളയുന്ന നിമിഷ വ്യതിയാനവും എന്ന് നമ്മൾ നോക്കും ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പോസിറ്റീവ് ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്ന കൺവെൻഷൻ എന്താണ് പോസിറ്റീവ് ഷിയർ പോസിറ്റീവ് ആണ് അതുപോലെ ഒരു പോസിറ്റീവ് ഘട്ടത്തിൽ ഘടികാരത്തിനു എതിർദിശയിൽ വളയുന്ന നിമിഷം പോസിറ്റീവ് ആണ് ഇതുപോലുള്ള ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് ഇതുപോലുള്ള കത്രിക ശക്തിയുടെ വ്യത്യാസമുണ്ടാകും ഇതുപോലുള്ള വളയുന്ന നിമിഷത്തിന്റെ വ്യത്യാസം ഞാൻ ഇതിനകം ചൂണ്ടിക്കാണിച്ചതായി കാണുക ഈ കേസിന് ഫ്ലെക്ചർ ഫോർമുല സാധുതയുള്ളതാണോ മെറ്റീരിയലുകളുടെ കരുത്തിൽ നിങ്ങൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുകയില്ല ഏകീകൃത ബെൻഡിങ് മോമെന്റിൽ നിങ്ങൾ ഒരു ബീമിനായി ഫ്ലെക്ചർ ഫോർമുല പഠിക്കുകയും കാന്റിലിവർ ബീം ലളിതമായി പിന്തുണയ്ക്കുന്ന ബീം ഓവർ ഹാംഗ് ബീം എന്നിവയിൽ പ്രയോഗിക്കുകയും ചെയ്തു അതിനാൽ നിങ്ങൾ ചെയ്ത നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾ ഒരിക്കലും സൂക്ഷ്മതകളിലേക്ക് നോക്കിയിട്ടില്ല അവസാന ക്ലാസ്സിൽ എനിക്ക് സ്ഥിരമായ കത്രിക ശക്തി ഉള്ളപ്പോൾ ഞാൻ കാണിച്ചു തുടർന്ന് ലോഡ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും തലം വിഭാഗങ്ങൾ തലം തുടരില്ല വാസ്തവത്തിൽ ഇതിന് ഒരു വ്യത്യാസമുണ്ട് ഭാഗ്യവശാൽ ഇത് വളയുന്നതിൽ ഇടപെടുന്നില്ല അതിനാൽ ആഴത്തിലുള്ള ബീമുകളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ സാധാരണ ക്രോസ് സെക്ഷൻ ബീമുകൾക്കായി വളയലും കത്രികയും വേർപിരിയും അതിനാൽ കത്രിക ശക്തി സ്ഥിരമായിരിക്കുമ്പോൾ ഫ്ലെക്ചർ ഫോർമുല വിപുലീകരിക്കുന്നതിൽ നിങ്ങൾക്ക് ന്യായമുണ്ട് നിങ്ങൾ ഇവിടെ എന്താണ് കാണുന്നത് കത്രിക ശക്തി സ്ഥിരമല്ല അതിനാൽ നിങ്ങളുടെ മെറ്റീരിയൽ ശക്തിയിൽ നിന്ന് നിങ്ങൾ കണക്കാക്കുന്നതെന്തും സമ്മർദ്ദം വളയ്ക്കുന്നത് കൃത്യമായിരിക്കില്ല ഒരു ഗണിതശാസ്ത്ര നിലപാടിൽ നിന്ന് പരിഹാരം കൃത്യമായിരിക്കില്ല നിങ്ങൾ അത് പ്രതീക്ഷിക്കണം നോക്കൂ മെറ്റീരിയലുകളുടെ കരുത്തിൽ ഞാൻ ഇതിനകം തന്നെ ഈ പ്രശ്നം പരിഹരിച്ചതായി നിങ്ങൾ പറയരുത് ഇലാസ്തികത സിദ്ധാന്തത്തിൽ ഞാൻ എന്തുകൊണ്ട് ഇത് പരിഹരിക്കണം ഇലാസ്തികത സിദ്ധാന്തത്തിലൂടെ നമ്മൾ ഇത് പരിഹരിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന തിരുത്തലുകൾ എന്താണെന്ന് കണ്ടെത്തുകയും പ്രായോഗിക സാഹചര്യത്തിനായി നിങ്ങൾ പറയുകയും ചെയ്യുന്നു ഈ തിരുത്തലുകൾ വളരെ ചെറുതാണ് എനിക്ക് ഇപ്പോഴും ഭൌതിക പരിഹാരത്തിന്റെ ശക്തിയോടെ ജീവിക്കാൻ കഴിയും അത് വ്യത്യസ്തമാണ് അത് ശരിയാണ് എഞ്ചിനീയർമാർ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് എഞ്ചിനീയർമാർ എല്ലായ്പ്പോഴും ഒരു പ്രശ്നം പരിഹരിക്കുകയും തിരുത്തൽ ഘടകങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു വാസ്തവത്തിൽ നമ്മൾ ആ വീക്ഷണകോണിൽ നിന്ന് നോക്കും ഫ്രാക്ചർ മെക്കാനിക്സ് പഠിക്കുമ്പോൾ നിങ്ങളുടെ അടിസ്ഥാനകാര്യങ്ങളും മായ്ക്കണം അതുകൊണ്ടാണ് സൂക്ഷ്മതകൾ പുറത്തുകൊണ്ടുവരാൻ മെറ്റീരിയലുകളുടെ ശക്തിയും ഇലാസ്തികത സിദ്ധാന്തവും അവലോകനം ചെയ്യുന്നതിന് ഞാൻ കുറച്ച് സമയം ചിലവഴിക്കുന്നത് അതിനാൽ അതിന്റെ പിന്നിലുള്ള ആശയം അതാണ് അതിനാൽ ഈ ക്ലാസ്സിൽ ഇലാസ്തികതയുടെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനകാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു പരിഹാര പ്രക്രിയയുടെ ഭാഗമായി നിങ്ങൾ സ്ഥലംമാറ്റം നിർണ്ണയിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാണെങ്കിൽപ്പോലും കേവലം ബന്ധിപ്പിച്ച ശരീരങ്ങളും കണക്റ്റുചെയ്ത ശരീരങ്ങളും ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ നമ്മൾ വേർതിരിച്ചിരിക്കുന്നു ലളിതമായി ബന്ധിപ്പിച്ച ബോഡികളിൽ സ്ട്രെസ് ഫോർമുലേഷൻ ഉപയോഗിക്കുമ്പോൾ അന്തിമ പരിഹാരം ലഭിക്കുന്നതിന് അനുയോജ്യത വ്യവസ്ഥകൾ നിങ്ങൾക്ക് ഉറപ്പുനൽകുന്നു കണക്റ്റുചെയ്ത ബോഡികളിൽ പരിഹാരം പൂർത്തിയാകാത്തതുവരെ നിങ്ങൾ സ്ഥാനചലനത്തിന്റെ പ്രത്യേകത കൊണ്ടുവരണം ഒരു എയറി സ്ട്രെസ് ഫംഗ്ഷൻ സമീപനം എന്താണെന്ന് നോക്കാൻ നമ്മൾ നീങ്ങി ഇത് ഒരു വിപരീത സമീപനമാണെന്ന് നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന അതിർത്തി വ്യവസ്ഥകളുടെ ഒരു പ്രശ്നത്തെ കണ്ടെത്തുന്നതിലുപരി ദ്വി ഹാർമോണിക് സമവാക്യം തൃപ്തിപ്പെടുത്തുന്ന തുടർന്ന് യോഗ്യത നേടുന്ന ഫൈ എന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ വാസ്തവത്തിൽ നോക്കുന്നു ഏത് ശാരീരിക പ്രശ്നമാണ് ഈ ഫൈ പ്രതിനിധീകരിക്കുന്നത് അതിനാൽ ആ അർത്ഥത്തിൽ ഇത് ഒരു അർദ്ധ വിപരീത രീതിയാണ് ഒരിക്കൽ നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിനായി ഫൈ ലഭിച്ചുകഴിഞ്ഞാൽ പ്രശ്നത്തെക്കുറിച്ചുള്ള എല്ലാം അറിയപ്പെടും കാരണം അത് ഈ ഭാഗിക വിപരീത രീതിയുടെ വികാസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു